നമസ്കാരം മെക്കനോബയോളജിയുടെ ആമുഖത്തിന്റെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം അവസാന ക്ലാസിൽ നിങ്ങൾ സെല്ലുകളിൽ നിരീക്ഷിച്ചേക്കാവുന്ന ഫോക്കൽ അഡ്ഹീഷനുകളിലെ വ്യത്യാസങ്ങളെക്കുറിച്ചും അവയുടെ സമ്മേളനത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചർച്ചചെയ്യാൻ ആരംഭിച്ചു ആ സന്ദർഭത്തിൽ 3 വ്യത്യസ്ത തരം ഫോക്കൽ അഡ്ഹീഷനുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും ചെറിയത് ഫോക്കൽ കോംപ്ലക്സുകളാണ് കൂടുതലായും കുത്തുകളായി കാണുന്ന ഒരു മൈക്രോൺ ഓർഡർ നീളമുള്ള ഇവ ലാമെല്ലിപോഡിയയുടെ അരികിൽ ആണ് കാണുക മാത്രമല്ല ഇവ ആയുർദൈർഘ്യം കുറഞ്ഞവയും അവയുടെ നിർമ്മിതിയിൽ ഫോക്കൽ അഡ്ഹീഷൻ പ്രോട്ടീനുകളായ പാക്സിലിൻ വിൻകുലിൻ എന്നിവ അടങ്ങിയവയും ആണ് ഈ ഫോക്കൽ കോംപ്ലക്സുകൾ വലിയ ഫോക്കൽ അഡ്ഹീഷനുകളായി വികാസം പ്രാപിക്കുന്നു ഫോക്കൽ അഡ്ഹീഷനുകൾ ആകൃതിയിൽ കൂടുതൽ നീളമുള്ളവയാണ് ഏകദേശം 2 5 മൈക്രോൺ നീളത്തോടുകൂടിയ അവ സെല്ലിന് ചുറ്റുമുള്ള പ്രദേശത്താണ് കാണുന്നത് അവയിൽ പാക്സിലിൻ വിൻകുലിൻ എന്നിവയോടൊപ്പം തീർച്ചയായും ഇന്റഗ്രിനുകൾ എല്ലായ്പ്പോഴും ഉണ്ട് കൂടാതെ ടാലിൻ ആൽഫ ആക്ടിനിൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രോട്ടീനുകൾ ഉണ്ട് ഈ ഫോക്കൽ അഡ്ഹീഷനുകൾ സെല്ലിൻറെ പ്രാന്തപ്രദേശങ്ങളിൽ കാണുന്നു ഫോക്കൽ അഡ്ഹീഷനുകളെ കൂടാതെ നിങ്ങൾക്ക് ഫൈബ്രില്ലർ അഡ്ഹീഷനുകൾ ഉണ്ടാകാം അവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അവ ഫൈബ്രില്ലർ സ്വഭാവമുള്ളവയാണ് പക്ഷേ അവ സെല്ലിന്റെ കേന്ദ്രഭാഗത്ത് അല്ലെങ്കിൽ കേന്ദ്രത്തോടു അടുത്താണ് കാണുന്നത് അവയ്ക്ക് 1 മുതൽ 10 മൈക്രോൺ വരെ നീളമുണ്ടാകാം അതുപോലെതന്നെ ഇന്റഗ്രിനെക്കൂടാതെ അവയിൽ ടെൻസിൻ എന്ന തന്മാത്രയുണ്ട് സെല്ലിന്റെ ചിത്രം ഞാൻ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഫൈബ്രില്ലർ അഡ്ഹീഷനുകൾ ഇവിടെയുണ്ട് ഫോക്കൽ അഡ്ഹീഷനുകൾ ഇവിടെയും ഫോക്കൽ അഡ്ഹീഷനുകൾ സെല്ലിന്റെ അറ്റത്തും ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് കുത്തുകൾ പോലെ കാണപ്പെടുന്ന ഫോക്കൽ കോംപ്ലക്സുകൾ ഉണ്ട് അവ വലിപ്പത്തിൽ വളരെ ചെറുതാണ് സെല്ലിന്റെ ചുറ്റളവിനോട് ചേർന്നു കാണുന്ന ഫോക്കൽ കോംപ്ലക്സുകൾ ഫോക്കൽ അഡ്ഹീഷനുൾ ആയും സെല്ലിന്റെ കേന്ദ്രത്തിനോട് ചേർന്നുള്ളവ ഫൈബ്രില്ലർ അഡ്ഹീഷനുകൾ ആയുംമാറുന്നു എന്താണ് ഈ പരിവർത്തനത്തെ പ്രേരിപ്പിക്കുന്നത് അത് ഫോഴ്സ് ആണ് ഫോഴ്സ്ഫോക്കൽ അഡ്ഹീഷനുകളുടെ വികാസത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ ഇതിന് ഫോഴ്സ് ആവശ്യമാണ് ഇതിനെ വിശദീകരിക്കുന്ന ആദ്യത്തെ പഠനങ്ങളിലൊന്ന് നടത്തിയത് വെയ്സ്മാനിലെ സാഷാ ബെർഷാഡ്സ്കിയുടെ സംഘമാണ് അവർ കാണിച്ചത് എന്തെന്നാൽ നിങ്ങൾക്ക് ഇവിടെപ്രതലത്തിൽ ഉള്ളതും അഡ്ഹീഷനുകളാൽ ബന്ധിപ്പിച്ചിട്ടുള്ളതുമായ ഒരു സെൽഉണ്ട് അദ്ദേഹം ഒരു പൈപ്പറ്റ് ഉപയോഗിച്ച് സെല്ലുകളുടെ അഗ്രഭാഗത്തിനുമുകളിൽ ഉരുട്ടി നിങ്ങൾ എവിടെയെല്ലാം പൈപ്പറ്റ് ഉപയോഗിക്കുന്നുണ്ടോ അതിനടുത്തായി ഫോക്കൽ അഡ്ഹീഷനുകളുടെവളർച്ച കാണാനാകുമെന്ന് അദ്ദേഹം കാണിച്ചു ജിഎഫ്പി വിൻകുലിൻ ട്രാൻസ്ഫെക്റ്റ് ചെയ്ത ഫൈബ്രോബ്ലാസ്റ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് ഈ പേപ്പർ ഒരു വായനാ അസൈൻമെന്റായി വായിക്കാൻ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഇത് പബ്മെഡ് വഴി ഡൌൺലോഡ് ചെയ്യാൻ കഴിയും ഫോക്കൽ അഡ്ഹീഷനുകളുടെ വളർച്ചയ്ക്ക് ഫോഴ്സുകൾ ആവശ്യമാണെന്ന് ഈ പരീക്ഷണം തെളിയിച്ചെങ്കിലും ഫോഴ്സുകളെ നിർണ്ണയിക്കുക എന്നത് പ്രയാസമാണ് ഈ പഠനം തെളിയിച്ച മറ്റൊരു കാര്യം ഫോഴ്സിനെ ആശ്രയിച്ചുള്ള ഈ വളർച്ച ഇന്റെഗ്രിൻഅധിഷ്ഠിത അഡ്ഹീഷനുകളിൽ ആണ് സംഭവിക്കുന്നത് പോളി ലൈസിൻ ആവരണം ചെയ്തിട്ടുള്ള പ്രതലത്തിൽ സമാന പരീക്ഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല അതിനാൽ ഈ പ്രത്യേക പരീക്ഷണത്തിലെ പ്രശ്നംഅല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്നത്നിങ്ങൾക്ക് നേരിട്ട് ഫോഴ്സുകളെ അളക്കാൻ കഴിയില്ല എന്നതാണ് അതിനാൽ ഫോഴ്സുകളെ കണക്കാക്കാൻ നിങ്ങൾക്ക് മറ്റൊരു സമീപനം അല്ലെങ്കിൽ സാങ്കേതികത ആവശ്യമാണ് വെയ്സ്മാനിലെ ബെന്നി ഗൈഗറും സാച്ച സാഷാ ബെർഷാഡ്സ്കിയും വികസിപ്പിച്ചെടുത്ത സമീപനങ്ങളിലൊന്ന് ഇങ്ങനെയാണ് അവർ പാറ്റേൺ ചെയ്ത ഒരു എലാസ്റ്റോമർ പ്രതലമായി എടുത്ത് ഈ എലാസ്റ്റോമെറിക് ഉപഗണങ്ങളുടെ മുകളിൽ ഫൈബ്രോനെക്റ്റിൻ ബിന്ദുക്കൾ ആവരണം ചെയ്തു ഇവിടത്തെ എലാസ്റ്റോമർ PDMS ആയിരുന്നു ഗ്രിഡ് പോലുള്ള ഈ ബിന്ദുക്കളുടെ സ്ഥാനം അകലും എന്നിവസെല്ലുകൾ ഇരിക്കുമ്പോൾ ഈ ബിന്ദുക്കളിൽ ഒന്നിനു എത്രമാത്രം സ്ഥാനഭ്രംശം സംഭവിക്കുന്നു എന്നത് കണക്കാക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു പ്രാദേശിക ഫോഴ്സ് ഉപയോഗിച്ച് ഇത് ഗുണിച്ചാൽ ആ പ്രത്യേക സ്ഥാനത്ത് ചെലുത്തിയ ഫോഴ്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം ഈ പരീക്ഷണത്തിലൂടെ അവർ കണ്ടെത്തിയത് എന്തെന്നാൽ നിങ്ങൾ ഒരു സെൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്ഹീഷനുകൾ ഉണ്ട്ഓരോ ഫോക്കൽ അഡ്ഹീഷനിലും ഉള്ള ഫോഴ്സുകളെ അവർക്ക് അളക്കാൻ കഴിഞ്ഞു കൂടാതെ അവ തമ്മിൽ ഒരു രേഖീയ പരസ്പര ബന്ധമുണ്ടെന്നതാണ് അവർ കണ്ടെത്തിയത് അതിനാൽ ഒരു നിശ്ചിത അഡ്ഹീഷനിൽ അവർ അളക്കുന്ന ഫോഴ്സും അഡ്ഹീഷൻറെ വിസ്തൃതിയും അല്ലെങ്കിൽ അഡ്ഹീഷൻറെ വലുപ്പവും തമ്മിൽ ഒരു രേഖീയ പരസ്പര ബന്ധമുണ്ടായിരുന്നു ഒരു രേഖീയ ആശ്രയത്വമാണ് എന്നത് ഫോഴ്സും വിസ്തൃതിയും അഥവാ ഫോഴ്സും ഫോക്കൽ അഡ്ഹീഷൻറെ വലുപ്പവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഈ പരസ്പരബന്ധം ഫോഴ്സും ഫോക്കൽ അഡ്ഹീഷൻറെ വലുപ്പവും തമ്മിൽ മാത്രമല്ല ഈ പരീക്ഷണം GFP അഥവാ GFP വിൻകുലിൻ ഉപയോഗിച്ച് ലേബൽ ചെയ്ത് സെല്ലുകൾ ഉപയോഗിച്ച് നടത്തിയതായതിനാൽ ഒരു ഫോക്കൽ അഡ്ഹീഷന്റെ മൊത്തം തീവ്രതയും ആ ബിന്ദുവിൽ ഉള്ള ഫോഴ്സിൻറെ തോതും നിങ്ങൾക്ക് ട്രാക്കു ചെയ്യാനാകും നിങ്ങൾക്ക് വീണ്ടും അവ തമ്മിൽ ഈ രേഖീയ പരസ്പര ബന്ധമുള്ളതായി കാണാം വലുപ്പവും ഫോഴ്സും തമ്മിലും തീവ്രതയും ഫോഴ്സും തമ്മിലും ഇത് അർത്ഥമാക്കുന്നത് ഒരു ഫോക്കൽ അഡ്ഹീഷൻ വലുതാണെങ്കിൽ ഈ അഡ്ഹീഷനിൽ ആ പ്രോട്ടീന്റെ പ്രാദേശികവൽക്കരണത്തിന്റെ അളവ് വർദ്ധിക്കുന്നു എന്നാണ് മാത്രമല്ല ഈ ചിത്രം വരച്ച രീതി എങ്ങനെയെന്നാൽ ഞാൻ ഫോഴ്സിൻറെ ദിശയും ഫോക്കൽ അഡ്ഹീഷന്റെ പ്രധാന അക്ഷവും ഏകദേശം വരച്ചു നിങ്ങൾ ഫോഴ്സ്ൻറെ ക്രമീകരണവും ഫോക്കൽ അഡ്ഹീഷൻറെ ക്രമീകരണവും നോക്കുകയാണെങ്കിൽ ഓരോ ഫോക്കൽ അഡ്ഹീഷനിലും ഒരു ദീർഘവൃത്തം ഘടിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രധാന അക്ഷത്തിൻറെ കോൺ കണ്ടെത്താനാകും കൂടാതെ അവ തമ്മിലും ചില ബന്ധങ്ങളുണ്ടെന്ന് കണ്ടെത്തി അവ തമ്മിൽ രേഖീയ പരസ്പര ബന്ധമുണ്ടായിരുന്നു ഇത് ഫോഴ്സും ഫോക്കൽ അഡ്ഹീഷൻ വലുപ്പവും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നു പക്ഷേ ഇപ്പോഴും ഈ സംഘടനയുടെ ദിശ എന്താണെന്ന് ഇത് പറയുന്നില്ല അത് തെളിയിക്കുന്നതിനായി അവർ BDM എന്ന ഈ മരുന്നിന്റെ സാന്നിധ്യത്തിൽ പരീക്ഷണങ്ങൾ നടത്തി BDMഎന്ന ഈമരുന്ന് എന്താണ് ചെയ്യുന്നത് ഇത് സെല്ലുകളെ അയവുള്ളവയാക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സെല്ലുകൾ കുറഞ്ഞ ഫോഴ്സുകൾ പ്രയോഗിക്കുന്നു അതിനാൽ സെല്ലുകൾ ചെലുത്തുന്ന ഫോഴ്സുകളുടെ വ്യാപ്തിയെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നു ഈ പരീക്ഷണം നടത്തി അവർ നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തെന്നാൽ ഫോഴ്സിനും വിസ്തീർണത്തിനുംFA ഇടയിൽ ഞാൻ ഈ കർവ് വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ കർവിന്റെ സ്വഭാവം അതേപടി തുടരും ആദ്യം ബിന്ദുക്കൾ ഇവിടെയാണ് ഉണ്ടായിരുന്നെങ്കിൽ മരുന്നിന്റെ സാന്നിധ്യത്തിൽ ഈ ബിന്ദുക്കൾ ഇടത്തേക്ക് മാറി പക്ഷേ അവ ഒരേ വരിയിൽ പതിക്കുകയും അതിന് മുകളിൽ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് കണ്ടെത്താൻ ആവുകയും ചെയ്യും അതിനാൽ ഈ രേഖയ്ക്ക് പൂജ്യം അല്ലാത്ത ഒരു ഇന്റർസെപ്റ്റ് ഉണ്ട് അപ്പോൾ പൂജ്യം അല്ലാത്ത ഒരു ഇന്റർസെപ്റ്റ് ഉണ്ട് കൂടാതെ ഈ രേഖയുടെ സ്ലോപ് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഈ രേഖയുടെ സ്ലോപ് ഏകദേശം ഒരു മൈക്രോൺ സ്ക്വയറിൽ 5 5 നാനോ ന്യൂട്ടൺ ആയിരുന്നു 1 മൈക്രോൺ സ്ക്വയർ വലിപ്പമുള്ള ഫോക്കൽ അഡ്ഹീഷൻ വഹിക്കുന്ന ശരാശരി ഫോഴ്സ് ആണിത് അതിനാൽ 1 മൈക്രോൺ സ്ക്വയർ ഫോക്കൽ അഡ്ഹീഷൻ 5 5 നാനോ ന്യൂട്ടന്റെ ഫോഴ്സ് വഹിക്കുന്നു സമയത്തിന് അനുസൃതമായി ഫോഴ്സിൽ ഉണ്ടാവുന്ന കുറവ് കണ്ടെത്താൻ ശ്രമിക്കുന്ന പരീക്ഷണം അവർ നടത്തിയപ്പോൾ നിങ്ങൾ BDM മരുന്ന് ചേർത്ത സമയം 0 ആണെന്ന് പറയാം ആ ബിന്ദുവിന് മുമ്പായി നിങ്ങൾക്ക് ചില സ്ഥിരമായ മൂല്യമുണ്ട് തുടർന്ന് ഈ പരിവർത്തനത്തിന്റെ ബിന്ദുവിനപ്പുറം ഈ മൂല്യങ്ങൾ കുറയാൻ തുടങ്ങും ഫോക്കൽ അഡ്ഹീഷൻ ഫോഴ്സിലെ ഈ പ്രത്യേക കുറവുമായി ബന്ധപ്പെടുത്തി അവർ മൊത്തം തീവ്രത പ്ലോട്ട് ചെയ്തപ്പോൾ അതും കുറയുന്നതായി കാണുന്നു ഇത് ഈ അക്ഷത്തിനും നീല ഈ ചുവന്ന അക്ഷത്തിനും വേണ്ടിയുള്ളതാണ് ഫോഴ്സിൽ വരുന്ന കുറവിനോട്അനുബന്ധമായി മൊത്തം ഫോക്കൽ അഡ്ഹീഷനുകളുടെ തീവ്രതയിലും രേഖീയമായ ഒരു കുറവുള്ളതായി കാണുന്നു കൂടാതെ ഇവ തീർത്തും പരസ്പരബന്ധിതമാണ് അതിനാൽ ഈ പരീക്ഷണം സൂചിപ്പിക്കുന്നത് ഫോക്കൽ അഡ്ഹീഷനുകളിൽ സെല്ലുകൾ ചെലുത്തുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ ഫോഴ്സ് യഥാർത്ഥത്തിൽ ഫോക്കൽ അഡ്ഹീഷനെ സ്ഥിരപ്പെടുത്തുന്നു അപ്പോൾ ഫോക്കൽ അഡ്ഹീഷനുകൾ സ്ഥിരപ്പെടുത്തുന്നതിന് ഫോഴ്സ് ആവശ്യമാണ് വീണ്ടും ഞാൻ സമ്മർദ്ദം ഉള്ളതായ ഒരുറബ്ബർ ബാൻഡിനോടുള്ള സെല്ലിന്റെ സാമ്യതയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ലളിതമായിട്ടുള്ള ഒരു ചിത്രം സങ്കൽപ്പിക്കുക ഇത് എൻറെ പ്രതലമാണ് സമ്മർദ്ദത്തിൽ ഉള്ള ഒരു റബർബാൻഡ് പോലെയുള്ള ഇത് എൻറെ സാങ്കൽപ്പികമായ സെൽ ആണ് കൂടാതെ നീല നിറത്തിലുള്ള ഇവ എൻറെ ഫോക്കൽ അഡ്ഹീഷൻ ആണ് ചെലുത്തുന്ന ഫോഴ്സിൻറെ വ്യാപ്തി വേഴ്സസ് പ്രതലത്തിൻറെ കംപ്രഷൻ എനിക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു രേഖീയ ബന്ധം കാണാൻ സാധിക്കും സമ്മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഫോക്കൽ അഡ്ഹീഷനുകൾ സുസ്ഥിരം ആവുകയും പ്രതലം കംപ്രസ്സു ചെയ്യുകയും മാത്രമല്ല അതിനോടൊപ്പം F A യുടെ വലുപ്പവും വർദ്ധിക്കും അപ്പോൾ ഈ വ്യവസ്ഥിതി മുഴുവനും സ്ഥിരത കൈവരിക്കുന്നത് അങ്ങനെയാണ് അതിനാൽ സമ്മർദ്ദം വർദ്ധിക്കുന്നത് ഒരു ഫോക്കൽ അഡ്ഹീഷന്റെ സ്ഥിരത ഉറപ്പാക്കാൻ അനുവദിക്കുന്നു ഇത് മുഴുവൻ ഘടനയും സുസ്ഥിരം ആക്കുന്നു അങ്ങനെയാണ് സെല്ലിൽ നിന്ന് ഫോഴ്സുകൾ പ്രതലത്തിലേക്ക് പകരുകയും ചെയ്യുന്നത് അതിനാലാണ് നിങ്ങൾക്ക് പ്രതലത്തിൻറെ വർദ്ധിച്ച കംപ്രഷൻ ലഭിക്കുന്നത് ഇത് ഫോക്കൽ അഡ്ഹീഷനുകളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു ഇന്നത്തെ ലെക്ച്ചറിലും അവസാന ലെക്ച്ചറിലും ചർച്ച ചെയ്ത 2 പേപ്പറുകളെ വായനാ അസൈൻമെൻറ് ആയി ഞാൻ വീണ്ടും നൽകുന്നു നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാൻ കഴിയുന്ന 2 പേപ്പറുകൾ ഇവയാണ് ഇവ തീർച്ചയായും വായിക്കുക നിങ്ങൾക്ക് ഇവ പബ്മെഡ് വഴി ഡൌൺലോഡ് ചെയ്യാൻ കഴിയും ആദ്യ പേപ്പർ2001 ജേണൽ ഓഫ് സെൽ ബയോളജിയിലെ Rivelineet al രണ്ടാമത്തെ പേപ്പർ വീണ്ടും 2001 നേച്ചർ സെൽ ബയോളജിയിലെ Balaban et al ഫോക്കൽ അഡ്ഹീഷനുകളുടെ വലുപ്പം നിയന്ത്രിക്കുന്നതിൽ ഫോഴ്സിനുള്ള സ്വാധീനം സമർത്ഥിക്കുന്നതിൽ നാഴികക്കല്ല് ആയിട്ടുള്ള 2 പേപ്പറുകളായിരുന്നു ഇവ ഒരു കൂടാരത്തിനോടുള്ള സെല്ലിന്റെ സാമ്യതയിലേക്ക് തിരികെ വരികയാണെങ്കിൽ നമ്മൾ E C M നെക്കുറിച്ച് ചർച്ചചെയ്തു അതുപോലെ ഫോക്കൽ അഡ്ഹീഷനുകളെക്കുറിച്ച് ചർച്ചചെയ്തു ഇപ്പോൾ നമുക്ക് സൈറ്റോസ്ക്ലെട്ടനെപ്പറ്റി നോക്കാം സെല്ലുകളുടെ സ്ഥിരതയ്ക്ക് ആവശ്യമായ പ്രവർത്തനസംവിധാനമാണ് സൈറ്റോസ്ക്ലെട്ടൺ മാത്രമല്ല ഫോക്കൽ അഡ്ഹീഷനുകളിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സുകളെ നിയന്ത്രിക്കുന്നതും ഇവയാണ് സൈറ്റോസ്ക്ലെട്ടൺ എന്താണെന്ന് നിങ്ങളിൽ മിക്കവർക്കും അറിയാം എന്നിരുന്നാലും സൈറ്റോസ്ക്ലെട്ടനെക്കുറിച്ച് ഒരു ഹൃസ്വ വിവരണം നൽകാം എന്ന് ഞാൻ വിചാരിക്കുന്നു അവയ്ക്ക് 3 വ്യത്യസ്ത തരം ഫിലമെന്റുകൾ ഉണ്ട് ആക്റ്റിനാൽ നിർമ്മിതമായ ഒരെണ്ണം മൈക്രോട്യൂബ്യുളുകളാൽ നിർമിതമായ ഒരെണ്ണം അതുപോലെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റുകളാൽ നിർമ്മിതമായ ഒരെണ്ണം സൈറ്റോസ്ക്ലെട്ടന്റെ മൊത്തത്തിലുള്ള സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ 3 വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ആണ് പ്രധാനമായി ഉള്ളതെങ്കിലും ആക്റ്റിൻ മൈക്രോട്യൂബുൾ സൈറ്റോസ്ക്ലെട്ടൺ എന്നിവ ക്രോസ് ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന പ്രോട്ടീനുകളുണ്ട് ACF 7 അല്ലെങ്കിൽ ആക്റ്റിൻ ക്രോസ് ലിങ്കിംഗ് ഫാക്ടർ 7 എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ ഇതിന് ഒരു ഉദാഹരണമാണ് ഇതിനു സമാനമായി നിങ്ങൾക്ക് ആക്റ്റിനെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റുകളുമായും അതുപോലെ മൈക്രോട്യൂബിളുകളെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റുകളുമായും ബന്ധിപ്പിക്കുന്ന പ്രോട്ടീനുകളുണ്ട് അതിനാൽ 3 ഫിലമെന്റ് തരങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ സെല്ലിന്റെ മെക്കാനിക്കൽ സ്വഭാവം നിർണ്ണയിക്കുന്നു ഇന്ന് നമുക്ക് ആക്റ്റിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം ആക്റ്റിൻ യഥാർത്ഥത്തിൽ ഏറ്റവും സമൃദ്ധമായ പ്രോട്ടീനുകളിലൊന്നാണ്യൂക്കാരിയോട്ടുകളിലെ മൊത്തം പ്രോട്ടീനിൽ ഏകദേശം 10 ശതമാനം ആക്റ്റിൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഏകദേശം അര ബില്ല്യൺ തന്മാത്രകളോളംവരും അതിനാൽ നിങ്ങൾ ഒരു അഡ്ഹെറന്റ്സെൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്ഹെറന്റ്സെൽ വരയ്ക്കുകയും ആക്റ്റിൻ സൈറ്റോസ്ക്ലെറ്റനെ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ കോർട്ടിക്കൽ ആക്റ്റിൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്ന ഈ പെരിഫറൽ സ്ട്രെസ് ഫൈബറുകൾ ഞാൻ വരച്ചിട്ടുണ്ട് ഇവയെ ട്രാൻസ്വേർസ് ഡോർസൽ ആർക്ക്സ് എന്ന് വിളിക്കുന്നു ഇവയെ ഡോർസൽ സ്ട്രെസ് ഫൈബർ എന്നും വിളിക്കുന്നു ഈ ഫൈബറുകൾ രൂപപ്പെടുത്തുന്നതിനു പുറമേ നിങ്ങൾക്ക് ഒരു വ്യാപകമായ പശ്ചാത്തലം ഉണ്ടാകും ഇവയെ ഒരു നെറ്റ്വർക്ക് കോണ്ട്രാക്ഷൻ അരേ എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത ആക്റ്റിൻ ഘടനകളുണ്ട് ഒരു മൈഗ്രേറ്റിംഗ് സെൽ വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശാഖകൾരൂപം കൊള്ളുന്നത് കാണാൻ കഴിയും അവിടെ മോണോമറുകൾ മെംബറേന് എതിരായി പോളിമറൈസ് ചെയ്യുകയും അതിനെ തള്ളുകയും ചെയ്യും സെല്ലിന്റെ ലീഡിങ് എഡ്ജിൽ ഉള്ള ഇവയിൽ ചിലത് കൂടുതൽ ചലനാത്മകവും ഇവ കൂടുതൽ നിശ്ചലവുമാണ് ഇവയാണ് യഥാർത്ഥത്തിൽ പ്രതലത്തിലേക്ക് ഫോഴ്സുകളെ കൈമാറുന്നത് ആക്റ്റിൻ രണ്ടു വ്യത്യസ്ത അവസ്ഥയിൽ കാണപ്പെടുന്നു അതായത് F ആക്റ്റിൻ G ആക്റ്റിൻ എന്നിവ G ആക്റ്റിൻ എന്നാൽ ഗ്ലോബുലാർ ആക്റ്റിൻഎന്നും F ആക്റ്റിൻ എന്നാൽ ഫിലമെന്റ് ആക്റ്റിൻ എന്നും ആണ് G ആക്റ്റിൻ മോണോമറുകൾ ഒത്തുചേർന്ന് ആണ് ഒരു ഫിലമെന്റ് രൂപപ്പെടുന്നത് അപ്പോൾ F ആക്റ്റിൻ G ആക്റ്റിന്റെ പോളിമറൈസേഷൻ വഴി രൂപംകൊണ്ടതാണ് ഒരു കൂട്ടം പഠനങ്ങളിലൂടെ അനവധി ഗവേഷകർ തെളിയിച്ചിട്ടുള്ളത് എന്തെന്നാൽ നിങ്ങൾ മോണോമറുകൾ എടുക്കുകയും അവ ഒന്നിലധികം വ്യത്യസ്ത പ്രക്രിയകൾക്ക് ബാധകമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ മോണോമറുകളിൽ ചിലതിന് ഒരു ന്യൂക്ലിയസ് രൂപപ്പെടുകയും തുടർന്ന് തുടർന്ന് സ്വയമേവ ഈ ന്യൂക്ലിയുകൾ നേർരേഖയിൽ ഒത്തുചേരുന്നു അതിനുശേഷം അതിനോടൊപ്പം ഈ മോണോമറുകൾ ചേരുകയും ആണ് ഈ വസ്തുവിനെ ന്യൂക്ലിയസ്എന്ന് വിളിക്കുന്നു ഈ പച്ച കുത്തുകൾ എന്റെ G ആക്റ്റിൻ ആണ് ഇത് എന്റെ ഫിലമെന്റ് രൂപമാണ് ഈ ഫിലമെന്റിൽ നിങ്ങൾക്ക് ഒരു പുതിയ മോണോമർ ചേർക്കാനോ അതിൽ നിന്ന് മോണോമറിന് പുറത്തുവരാനോ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരറ്റത്ത് നിന്ന് പുതുതായി ചേർക്കുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്യാം സ്ഥിരമായ അവസ്ഥയിൽ നിങ്ങളുടെ ഫിലമെന്റ് ദൈർഘ്യം ഏകദേശം സ്ഥിരമായി തന്നെ തുടരും പക്ഷേ അപ്പോഴും അത് ചലനാത്മകമാണ് പുതുതായി മോണോമറുകൾ ചേർക്കുന്ന പ്രക്രിയ പോളിമറൈസേഷനും നീക്കം ചെയ്യുന്ന പ്രക്രിയ അത് ഡിപോളിമറൈസേഷനും അവ തുടർന്നുകൊണ്ടേയിരിക്കും സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് പ്ലോട്ട്ചെയ്യുകയാണെങ്കിൽ ഈ മോണോമറുകൾ ഒത്തുചേർന്ന് ഒരു ന്യൂക്ലിയസ് രൂപപ്പെടാൻ കുറച്ച് സമയമെടുക്കും തുടർന്ന് ന്യൂക്ലിയസ് രൂപപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫിലമെന്റ് ഉണ്ടാകാം എന്റെ Y അക്ഷം ഫിലമെന്റിന്റെ അളവ് അല്ലെങ്കിൽ ഫിലമെന്റിന്റെ മാസ്സ് ആണ് എന്നാൽ ഞാൻ ഒരു ന്യൂക്ലിയസ് നൽകിയാൽ ഈ പ്രക്രിയ വളരെ വേഗത്തിലാകും നിങ്ങൾ ഒരു ന്യൂക്ലിയസ് ചേർക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ ഫിലമെന്റ് രൂപീകരണം എല്ലായ്പ്പോഴും സംഭവിക്കുന്നില്ല അതിന് ഒരു നിർണായക സാന്ദ്രത ആവശ്യമാണ് അതിനാൽ ഞാൻ മോണോമറിൻറെ സാന്ദ്രത പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ താഴെയുള്ള ഒരു നിശ്ചിത പരിധിക്ക് താഴെയായി നിങ്ങൾ മോണോമറുകൾ ചേർക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മോണോമറുകളുടെ മാസ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഈ പരിധി കഴിഞ്ഞാൽ നിങ്ങളുടെ മോണോമറിൻറെ സാന്ദ്രത സ്ഥിരമായി തുടരും പക്ഷേ നിങ്ങളുടെ ഫിലമെന്റിന്റെ സാന്ദ്രത വർദ്ധിക്കും ഇത് ഫിലമെന്റ് ആണ് ഇത് മോണോമർ ആണ് ഇതാണ് നിർണ്ണായക സാന്ദ്രത Cc ഇത് സ്ഥിരതയുള്ള അവസ്ഥയിൽ സമ്മേളിക്കാത്ത മോണോമറുകളുടെ സാന്ദ്രതയെ പ്രതിനിധീകരിക്കുന്നു ഇത് 0 1 മൈക്രോമോളാർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ അടുത്ത ക്ലാസ്സിൽ ആക്റ്റിൻഫിലമെന്റുകൾഎങ്ങനെ വളരുന്നു നിങ്ങൾക്ക് ഏതുതരം നെറ്റ്വർക്ക് രൂപീകരിക്കാം ഈ ആക്റ്റിൻ നെറ്റ്വർക്കുകൾ പ്രയോഗിക്കുന്ന ഫോഴ്സുകളെ എങ്ങനെ അളക്കാം എന്നിവയെക്കുറിച്ചു ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് തുടരാം